ഈ സെഷനിലേക്ക് സ്വാഗതം ഇതുവരെ ഞങ്ങൾ ടെസ്റ്റിംഗിലെ ചില അടിസ്ഥാന ആശയങ്ങൾ പരിശോധിച്ചിരുന്നു തുടർന്ന് ഞങ്ങൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ നോക്കാൻ തുടങ്ങി തുല്യമായ ക്ലാസ് വിഭജനമായ ഒരു പ്രമുഖ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് തന്ത്രം ഞങ്ങൾ നോക്കി തുല്യതാ ക്ലാസ് വിഭജനത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇൻപുട്ട് ഡാറ്റയെ ക്ലാസുകളായി മാതൃകയാക്കുന്നു തുടർന്ന് ക്ലാസ്സിലെ എല്ലാ മൂല്യങ്ങളും പരീക്ഷിക്കുന്നതുപോലെ ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു മൂല്യം പരീക്ഷിക്കുന്നത് നല്ലതാണ് എന്നാൽ പിന്നീട് ഞങ്ങൾ പറഞ്ഞു ഒരു പ്രശ്ന വിവരണം നൽകിയ തുല്യത ക്ലാസുകൾ തിരിച്ചറിയാൻ കുറച്ച് അനുഭവവും ഉൾക്കാഴ്ചയും ആവശ്യമാണ് ഞങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾ പരീക്ഷിച്ചു തുടർന്ന് ഒരു യൂണിറ്റ് ഒന്നിലധികം പാരാമീറ്ററുകൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ നോക്കി തുടർന്ന് ഈ ഓരോ പാരാമീറ്ററുകൾക്കും ഒന്നിലധികം ഇൻപുട്ട് ഡൊമെയ്നുകൾ ഞങ്ങൾ മാതൃകയാക്കണം ഈ പാരാമീറ്ററുകൾ സ്വതന്ത്രമാണെങ്കിൽ രണ്ട് പാരാമീറ്ററുകൾക്ക് തുല്യമായ ക്ലാസുകളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് തുടർന്ന് ഞങ്ങൾ ദുർബലമായ തുല്യതാ പരിശോധന ശക്തമായ തുല്യതാ പരിശോധന ശക്തമായ പരിശോധന തുടങ്ങിയവയുടെ ആശയങ്ങൾ നോക്കുകയായിരുന്നു ഇന്ന് പ്രത്യേക മൂല്യ പരിശോധന എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് തന്ത്രം ഞങ്ങൾ നോക്കുന്നു പ്രത്യേക മൂല്യ പരിശോധനയിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ടെസ്റ്ററിന് ഒരു സോഫ്റ്റ്വെയർ നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു പ്രോഗ്രാം എവിടെ പരാജയപ്പെടാം ഏത് ഇൻപുട്ട് മൂല്യങ്ങൾ പ്രോഗ്രാം പരാജയപ്പെടാം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുണ്ട് അത് വളരെ പരിചയസമ്പന്നരായ പ്രോഗ്രാമർമാർക്ക് പ്രത്യേകിച്ചും സത്യമാണ് പ്രോഗ്രാം പരാജയപ്പെടാൻ സാധ്യതയുള്ള ചില പ്രത്യേക മൂല്യങ്ങൾ അവർക്ക് എങ്ങനെയെങ്കിലും അറിയാം പ്രോഗ്രാം പരാജയപ്പെടാവുന്ന വ്യത്യസ്ത പ്രത്യേക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ പ്രോഗ്രാമുകളിലും ബാധകമായ പരാജയത്തിന്റെ പൊതുവായ അപകടസാധ്യതയാണ് ഒന്ന് ഈ പ്രത്യേക മൂല്യത്തിന്റെ പേര് അതിർത്തി മൂല്യമാണ് പ്രോഗ്രാമർമാർ അവരുടെ പ്രോഗ്രാം എഴുതുമ്പോൾ ചില കാരണങ്ങളാൽ തുല്യതാ ക്ലാസുകളുടെ അതിർത്തിയിൽ തെറ്റുകൾ വരുത്തുന്നു എന്തുകൊണ്ടാണ് അവർ തെറ്റുകൾ വരുത്തുന്നതെന്ന് ഞങ്ങൾ കാണും തുടർന്ന് ഏതെങ്കിലും പ്രോഗ്രാം നൽകിയാൽ അതിർത്തി മൂല്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവിടെ ബഗുകളുടെ വലിയ അപകടസാധ്യതയുണ്ട് മറ്റൊന്ന് പ്രത്യേക അപകടസാധ്യതയാണ് അവിടെ പ്രോഗ്രാം തരം പ്രശ്ന വിവരണം മുതലായവയെ ആശ്രയിച്ചിരിക്കുന്നു പ്രോഗ്രാമർ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടേക്കാം ഉദാഹരണത്തിന് ഒരു നിശ്ചിത തീയതിക്കായി ദിവസം കണക്കാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ പ്രോഗ്രാം ഒരു ദിവസം നൽകിയ തീയതി കണക്കാക്കുന്നു ഇവിടെ ഒരു പരിചയസമ്പന്നനായ പ്രോഗ്രാമർ പറയും അധിവർഷങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ടെന്ന് കാരണം ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ തീയതി ഒരു നമ്പറാക്കി മാറ്റേണ്ടിവരുമെന്ന് ടെസ്റ്ററിന് അറിയാം തുടർന്ന് ചില അൽഗോരിതം ഉപയോഗിച്ച് ദിവസം എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി ഇവിടെ ഒരു സാധ്യതയുള്ള തെറ്റ് അധിവർഷങ്ങൾ കണക്കിലെടുത്തിട്ടില്ല എന്നതാണ് അതിനാൽ ഒരു ലീപ് വർഷം ഉൾപ്പെടുന്ന ഒരു ടെസ്റ്റ് ഡാറ്റ നൽകുകയും അത് പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു പ്രത്യേക മൂല്യം ഇപ്പോൾ എല്ലാത്തരം സോഫ്റ്റ്വെയറുകൾക്കും ബാധകമായ അതിർത്തി മൂല്യം എന്ന് വിളിക്കപ്പെടുന്ന ഈ പൊതുവായ പ്രത്യേക മൂല്യ പരിശോധന നമുക്ക് നോക്കാം അതിനാൽ തുല്യതാ ക്ലാസുകളുടെ അതിരുകൾക്കിടയിൽ പ്രോഗ്രാമർ തെറ്റ് ചെയ്തേക്കാം കാരണം പ്രോഗ്രാമർ സാധാരണയായി പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ മാറുകയാണെങ്കിൽ വ്യത്യസ്ത തുല്യതാ ക്ലാസുകൾ തമ്മിൽ വേർതിരിച്ചറിയാൻ പ്രോഗ്രാമുകൾ എഴുതുന്നു കൂടാതെ യുക്തിപരമായ ആവിഷ്കാരത്തിൽ ഒരു കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ളതിനേക്കാൾ കുറവുള്ളതിനേക്കാൾ കുറവുള്ള ഒരു തെറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ തുല്യതാ ക്ലാസുകളുടെ അതിർത്തിയിൽ ഞങ്ങൾ നമ്പറുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ ഈ ടെസ്റ്റിംഗിന്റെ ഉത്ഭവം അല്ലെങ്കിൽ പ്രാധാന്യം തുല്യതാ ക്ലാസുകളുടെ അതിരുകളിൽ പ്രോഗ്രാമറിൽ നിന്ന് ഒരു പ്രത്യേക പ്രോസസ്സിംഗ് അല്ലെങ്കിൽ പ്രത്യേക പരിഗണന ആവശ്യമാണ് അവൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിനാൽ ഏറ്റവും ലളിതമായ അതിർത്തി മൂല്യ പരിശോധന സൂചിപ്പിക്കുന്നത് വ്യത്യസ്ത തുല്യതാ ക്ലാസുകളുടെ അതിർത്തിയിൽ ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ തിരഞ്ഞെടുക്കുന്നു ഞാൻ പറഞ്ഞു ഏറ്റവും ലളിതമായത് കാരണം അതിരുകൾക്കുള്ളിലെ മൂല്യം എന്ന മറ്റൊരു മൂല്യവും ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ a b എന്നീ മൂല്യങ്ങളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു ശ്രേണി തുല്യത ക്ലാസ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ a b എന്നിവ ഉൾപ്പെടുത്തണം കൂടാതെ a ന് മുകളിലുള്ളതും ബിക്ക് തൊട്ടുതാഴെയുള്ളതും ഉദാഹരണത്തിന് നമുക്ക് മൈനസ് 3 മുതൽ 10 വരെയുള്ള ശ്രേണി മൈനസ് 3 മുതൽ 10 വരെയുള്ള ശ്രേണി തുല്യത ആണെങ്കിൽ ഈ ശ്രേണി സൂചിപ്പിക്കുന്ന തുല്യതാ ക്ലാസാണ് അപ്പോൾ നമ്മൾ മൈനസ് 3 ഉൾപ്പെടുത്തണം 10 എണ്ണം ഉൾപ്പെടുത്തണം ഈ തുല്യതാ ക്ലാസിന്റെ അതിരുകൾ മൈനസ് 2 ആയ ലോവർ ബൌണ്ടിനേക്കാൾ വളരെ ഉയർന്നതും 9 ആയ ഉയർന്ന ബൌണ്ടിനേക്കാൾ താഴ്ന്നതുമായ ഒരു സംഖ്യയും ഞങ്ങൾ ഉൾപ്പെടുത്തണം 0 അതുപോലെ അതിനാൽ ഞങ്ങൾക്ക് 3 5 100 102 മുതലായ ഡാറ്റ ഉണ്ടെങ്കിൽ ഞങ്ങൾ ലോവർ ബൌണ്ട് 3 ഉയർന്ന ബാൻഡ് 102 3 ന് മുകളിൽ 5 കൂടാതെ 102 ൽ താഴെയുള്ള മൂല്യം 100 എന്നിവ പരിഗണിക്കേണ്ടതുണ്ട് അത് 100 ഉം ഒരു മൂല്യം 1 ഉം എഴുതണം ക്ഷമിക്കണം ഞങ്ങൾ 1 ആയി എഴുതിയിരിക്കണം ഇനി നമുക്ക് ചില ഉദാഹരണം എടുക്കാം ഞങ്ങൾ എഴുതിയ ഒരു എച്ച്ആർ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് പറയാം അപേക്ഷകന്റെ പ്രായം 0 മുതൽ 12 വയസ്സുവരെയെങ്കിൽ ഞങ്ങൾ നിയമിക്കില്ല എന്നതാണ് ഒരു HR നയം അപേക്ഷകന് 12 നും 18 നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇന്റേണായി മാത്രമേ നിയമിക്കാനാകൂ 18 നും 65 നും ഇടയിലാണെങ്കിൽ നമുക്ക് മുഴുവൻ സമയവും നിയമിക്കാം 65 ന് മുകളിൽ ഞങ്ങൾ നിയമിക്കുന്നില്ല അതിനാൽ സ്പെസിഫിക്കേഷൻ തന്നെ ഒരു പ്രശ്നമാണ് വ്യക്തമായും ഈ സ്പെസിഫിക്കേഷനെ അടിസ്ഥാനമാക്കി എഴുതിയ കോഡിന് സമാനമായ പ്രശ്നം ഉണ്ടാകും അതിർത്തി നോക്കിയാൽ മതി അതിനാൽ 0 മുതൽ 12 വരെ 12 ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 12 പേരെ നിയമിച്ചിട്ടില്ല കൂടാതെ 12 പേരെ നിയമിക്കുന്നു സ്പെസിഫിക്കേഷന് തന്നെ അതിർത്തിയിൽ പ്രശ്നമുണ്ട് ഞങ്ങൾ അത് കോഡിലേക്ക് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിർത്തിയിൽ സമാന പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനാൽ ഇവിടെ കാണുക 12 പ്രസ്താവന ശരിയാണെങ്കിൽ ഇത് ചെയ്യും അടുത്തത് പ്രസ്താവനയും സത്യമാകുമ്പോൾ അതുപോലെ 18 65 മുതലായവയുടെ കേസ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് 0 മുതൽ 11 വരെയാണ് നിയമിക്കരുത് 12 മുതൽ 17 വരെ ഇന്റേണായി നിയമിക്കുക 18 മുതൽ 64 വരെ മുഴുവൻ സമയ ജീവനക്കാരനായും 65 മുതൽ 99 വരെയും നിയമിക്കുക അതിനാൽ ഇത് അതിർത്തിയിലെ പരിഗണനയും കോഡിലേക്കുള്ള വിവർത്തനവും ശ്രദ്ധിക്കുമായിരുന്നു ഈ സ്പെസിഫിക്കേഷൻ കോഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമർക്ക് അതിർത്തിയിൽ പ്രശ്നമുണ്ടാകില്ല അത് പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിൽ കോഡിംഗിൽ തന്നെ തെറ്റ് വരുത്തുക ഞങ്ങൾ ഇവിടെ വ്യക്തമാക്കാത്തത് ഇവിടെയുള്ള അതിരുകൾ മറികടക്കുന്ന തീയതികളെക്കുറിച്ചാണ് മൈനസ് 3 ന്റെ കാര്യമോ 101 ന്റെ കാര്യമോ അതിനാൽ ഇതും പരീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ശരിയാക്കിയ സ്പെസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഇത് തിരുത്തിയ കോഡാണ് ഏത് സാഹചര്യത്തിലും നമ്മൾ 11 12 0 മൈനസ് 1 17 18 64 65 99 100 എന്നീ അതിരുകൾ പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായും നാമമാത്ര മൂല്യങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ചിത്രപരമായി കാണിക്കാൻ വ്യത്യസ്ത തുല്യതാ ക്ലാസുകളുടെ സാധുവായതും അസാധുവായതുമായ തുല്യതാ ക്ലാസുകളുടെ അതിർത്തിയിൽ നമ്മൾ അതിരുകൾക്കുള്ളിൽ ഒരു മൂല്യം എടുക്കണം അതിരുകൾക്കുള്ളിൽ ഒരു മൂല്യം ഓരോ തുല്യത ക്ലാസുകൾക്കും അതിരുകൾക്ക് പുറത്ത് ഒരു മൂല്യം ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുക്കാം ഞങ്ങൾക്ക് 1 മുതൽ 5000 വരെ അതിർത്തി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 മുതൽ 5000 വരെ തുല്യതയുണ്ട് അതിനാൽ ഇതിനുള്ള അതിർത്തി മൂല്യ പരിശോധന കേസുകൾ എന്തായിരിക്കും നമ്മിൽ 5000 ഉൾപ്പെടുത്തേണ്ടിവരും 5000 5001 4999 1 0 രണ്ട് കവിയുന്ന ഒന്ന് തുല്യത ക്ലാസിന്റെ പ്രതിനിധിയായ മറ്റേതെങ്കിലും മൂല്യം 1000 ആയിരിക്കാം ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു ജീവനക്കാരന്റെ പ്രായം വിവിധ ജീവനക്കാരുടെ പ്രായം അവരുടെ ശരാശരി പ്രായം എന്നിവ കണക്കാക്കുന്ന ഒരു ഫംഗ്ഷൻ നൽകിയിരിക്കുന്നു അതിനാൽ ഒരു ഫയലിൽ സംഭരിച്ചിരിക്കുന്ന വിവിധ ജീവനക്കാരുടെ പ്രായം വായിക്കുകയും തുടർന്ന് ശരാശരി പ്രായം കണക്കാക്കുകയും പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണിത് അതിനാൽ ചിത്രപരമായി നമുക്ക് ഒരു പ്രോഗ്രാം ആയി പ്രതിനിധീകരിക്കാം അത് ഒരു ബ്ലാക്ക് ബോക്സ് ആണ് അത് വിവിധ ജീവനക്കാരുടെ എല്ലാ പ്രായക്കാരെയും എടുക്കുകയും ശരാശരി പ്രായം അച്ചടിക്കുകയും ചെയ്യുന്നു ജീവനക്കാരുടെ സാധുവായ പ്രായം 1 മുതൽ 100 വരെ അല്ലെങ്കിൽ 18 1 മുതൽ 100 വരെയാകാം എന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ ഇതിനുള്ള അതിർത്തി മൂല്യ പരിശോധന കേസുകൾ എന്തായിരിക്കും എത്ര ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് അതിനാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ 5 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് അതിർത്തിയുടെ ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് പരമാവധി ഒന്ന് 1 100 അകത്ത് ഒരാൾ പറയുന്നത് 2 100 ന് താഴെ ഒരാൾ ഒരു പ്രതിനിധി ഞങ്ങൾ അസാധുവായവ പരിഗണിക്കുകയാണെങ്കിൽ ഞങ്ങൾ 101 ഉം 0 ഉം പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ അത് 7 ആക്കും ഈ തുല്യതാ ക്ലാസിന് സാധുതയുള്ളത് ഞങ്ങൾ 5 തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നാൽ ഒരു പരിധിക്ക് പുറത്ത് ഒരു വരി പരിഗണിക്കുകയാണെങ്കിൽ പുറം അതിർത്തി ഒരു നെഗറ്റീവ് ടെസ്റ്റ് കേസ് ആണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനാൽ നിങ്ങൾ നെഗറ്റീവ് ടെസ്റ്റ് കേസുകൾ പരിഗണിക്കുകയാണെങ്കിൽ ഞങ്ങൾ 101 ഉം 0 ഉം പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ നെഗറ്റീവ് ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അഞ്ച് ഞങ്ങൾ നെഗറ്റീവ് ടെസ്റ്റ് കേസുകളും പരിഗണിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് അതിർത്തി മൂല്യ പരിശോധനയ്ക്കായി ഞങ്ങൾക്ക് ഏഴ് ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് അതിനാൽ ഇത് ചില സാമ്പിൾ മൂല്യങ്ങൾ മാത്രമാണ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് വേരിയബിളുകൾ ഉണ്ടെന്ന് പറയാം ഒന്ന് വിദ്യാഭ്യാസത്തിന്റെയും പ്രായത്തിന്റെയും വർഷങ്ങളാണ് ഒരു ഫംഗ്ഷൻ എടുക്കുന്ന 2 പാരാമീറ്ററുകൾ ഇവയാണ് 1 മുതൽ 23 വരെയും 1 മുതൽ 100 വരെയുമുള്ള വിദ്യാഭ്യാസ വർഷങ്ങൾ അതിനാൽ അതിർത്തി മൂല്യങ്ങൾ എന്തായിരിക്കും അതിനാൽ ഞങ്ങൾക്ക് 2 പാരാമീറ്ററുകൾ ഉണ്ട് ഇൻപുട്ടിന് 2 ഇൻപുട്ട് ഡാറ്റയുണ്ട് ഒന്ന് വിദ്യാഭ്യാസ വർഷവും മറ്റൊന്ന് പ്രായവുമാണ് ഞങ്ങൾ അവരെ സ്വതന്ത്രമായി പരിഗണിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വർഷങ്ങളിൽ ഞങ്ങൾക്ക് 5 ഉം പ്രായത്തിന് 5 ഉം ആവശ്യമാണ് അതിനാൽ ഞങ്ങൾക്ക് 10 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് തുടർന്ന് ഇതിന്റെ പ്രതിനിധിയായ ഒന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇത് രണ്ടിനും ബാധകമാകുന്ന തരത്തിൽ നമുക്ക് അത് തിരഞ്ഞെടുക്കാം അതിനാൽ ഈ തുല്യതാ ക്ലാസിന്റെ പ്രതിനിധിയെ പരിഗണിച്ചാൽ നമുക്ക് 11 ആവശ്യമാണ് നമ്മൾ അതിനെ ചിത്രപരമായി പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഈ വേരിയബിളിന് 2 അതിരുകളുണ്ട് വർഷങ്ങളുടെ വിദ്യാഭ്യാസത്തിനും പ്രായത്തിനും 2 അതിരുകളുണ്ട് അതിനാൽ പരിധിക്കുള്ളിലെ മൂല്യങ്ങൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ടെസ്റ്റ് കേസുകൾ ഇവിടെ 5 ഉം ഞങ്ങൾക്ക് ഇവിടെ 5 ഉം ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് n പരാമീറ്ററുകൾ ഉണ്ടെങ്കിൽ ഓരോ അതിരുകൾക്കും നമുക്ക് 4n1 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് നമ്മൾ നെഗറ്റീവ് ടെസ്റ്റ് കേസുകൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അതിനാൽ n സ്വതന്ത്ര ഇൻപുട്ടുകൾക്കായി ഞങ്ങൾക്ക് 4n1 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് അതിനാൽ x y എന്നീ രണ്ട് അതിരുകളുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രതിനിധീകരിച്ചു x ന് a നും b നും ഇടയിൽ അതിരിനും c നും d നും ഇടയിൽ അതിരുകളുണ്ട് അതിനാൽ നമുക്ക് 2n4 ആവശ്യമാണ് അത് 9 ടെസ്റ്റ് കേസുകളാണ് അതിനാൽ 4 8 പ്ലസ് 1 9 ഒന്നിലധികം പരാമീറ്ററുകൾക്കായി പ്രത്യേക മൂല്യ ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യുന്ന വിധത്തിൽ ഞങ്ങൾ പറഞ്ഞതിൽ ഒരു അനുമാനം ഏത് സമയത്തും ഒരു അതിർത്തിക്ക് പ്രശ്നമുണ്ടാകാം എന്നാൽ രണ്ട് അതിരുകൾക്കും ചില മൂല്യങ്ങളുടെ ചില പ്രത്യേക കോമ്പിനേഷനുകൾ ഉള്ളപ്പോൾ പിശക് സംഭവിക്കുന്ന ഒരു സാഹചര്യം സാധ്യമാണെങ്കിൽ 2 പാരാമീറ്ററുകളുടെ വ്യത്യസ്ത പ്രത്യേക മൂല്യങ്ങൾ തമ്മിലുള്ള സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ 4n1 ഫലം ശരിയാണ് പരാമീറ്ററുകളിലൊന്നിന് ഒരു പ്രത്യേക മൂല്യത്തിനായി പ്രശ്നം നിരീക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ എന്നാൽ രണ്ട് പാരാമീറ്ററുകൾക്കും ചില മൂല്യങ്ങളുടെ സംയോജനമുണ്ടെങ്കിൽ മാത്രം പ്രത്യേക മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാകൂ അതിനാൽ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് 4 മുതൽ 4 വരെ 4 പ്ലസ് 4 അല്ല അതിനാൽ നെഗറ്റീവ് ടെസ്റ്റ് കേസുകളും പരിഗണിക്കേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കരുത്തുറ്റ പരിശോധന എന്ന് വിളിക്കുന്നു അതിനാൽ ഇവ തുല്യതാ ക്ലാസുകൾക്ക് പുറത്തുള്ള മൂല്യങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഓരോ വേരിയബിളിനും ഞങ്ങൾക്ക് ഏഴ് ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് കരുത്തുറ്റ പരിശോധനയിൽ ഒരു സാധുവായ മൂല്യമല്ലാത്ത ഒരു മൂല്യം അസാധുവായ മൂല്യം പ്രോഗ്രാമർ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ അത്തരം മൂല്യങ്ങൾ നൽകാനാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നോ മൂല്യം സാധുതയുള്ളതല്ലെന്ന് ഒരു വിവരദായക സന്ദേശം നൽകി ദയവായി ഒരു സാധുവായ മൂല്യം നൽകുക അതിന് കുറച്ച് വീണ്ടെടുക്കൽ ഉണ്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമർ എല്ലാ പ്രവർത്തനങ്ങളും ആവർത്തിക്കേണ്ടതുണ്ട് അതിനാൽ അവസാന മൂല്യം അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ അയാൾക്ക് പുതുതായി ആരംഭിക്കേണ്ടതുണ്ട് അതിനാൽ നെഗറ്റീവ് ടെസ്റ്റ് കേസുകളും പരിഗണിക്കുമ്പോൾ ഞങ്ങൾ 6n1 നൽകേണ്ടതുണ്ട് അതിനാൽ രണ്ട് അതിരുകളിലുമുള്ള ഓരോ വേരിയബിളിനും മൂന്നെണ്ണം അത് 6 ആക്കുന്നു കൂടാതെ എല്ലാ അതിരുകൾക്കും ഞങ്ങൾക്ക് 6 ആവശ്യമാണ് അതിനാൽ നമുക്ക് n തുല്യതാ ക്ലാസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 6n1 ആവശ്യമാണ് എന്നാൽ നമുക്ക് ബൂളിയൻ വേരിയബിളുകൾ ഉണ്ടെങ്കിൽ ഈ പ്രത്യേക മൂല്യ പരിശോധന ഉപയോഗിച്ച് ഞങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും ഒരുപക്ഷേ ഈ ബൂളിയൻ മൂല്യങ്ങൾ ഉപയോക്തൃ ഇന്റർഫേസുകളിൽ വളരെ സാധാരണമാണ് അവിടെ നമുക്ക് റേഡിയോ ബട്ടണുകളുണ്ട് ഒന്നുകിൽ ഞങ്ങൾ റേഡിയോ ബട്ടൺ അടയാളപ്പെടുത്തുകയോ അടയാളപ്പെടുത്തുകയോ ചെയ്യും ഒരു നോൺ ന്യൂമെറിക്കൽ വേരിയബിളിന്റെ കാര്യമെന്താണ് അതിനാൽ ഞങ്ങൾ ഒരു സ്ട്രിംഗ് ആണെങ്കിൽ സംഖ്യാ അതിരുകൾ മാത്രം നോക്കി അതിനാൽ നമുക്ക് ഈ കേസുകൾ ചർച്ച ചെയ്യാം ഈ പ്രത്യേക കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാൽ അതിനുമുമ്പ് നമുക്ക് ഒരു ചെറിയ ക്വിസ് നടത്താം അത് ഒരു ഫങ്ഷനുവേണ്ടി ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് സ്യൂട്ട് രൂപകൽപന ചെയ്യുന്നു പ്രത്യേക മൂല്യം പരിശോധന രൂപകൽപ്പന ചെയ്യാൻ ഇത് ആവശ്യപ്പെടുന്നില്ലെന്നത് ശ്രദ്ധിക്കുക ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് സ്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതിനാൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് സ്യൂട്ടിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് തുല്യത ക്ലാസാണ് കൂടാതെ ഞങ്ങൾ ചർച്ച ചെയ്തവയിലേക്ക് തിരിഞ്ഞുനോക്കുകയാണെങ്കിൽ തുല്യതാ ക്ലാസ്സിൽ നമ്മൾ സാഹചര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അത് സാധ്യമായ തുല്യതാ ക്ലാസുകൾ എന്താണെന്ന് നമുക്ക് സൂചന നൽകുന്നു അതിനാൽ ഞങ്ങൾക്ക് ഈ ഫംഗ്ഷൻ ഉണ്ട് അത് മൂന്ന് പരാമീറ്ററുകൾ എടുക്കുന്നു a b c അത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകളാകാം തുടർന്ന് ഈ സമവാക്യത്തിന്റെ പരിഹാരം ഒരു x സ്ക്വയർ പ്ലസ് b x പ്ലസ് സി പ്രദർശിപ്പിക്കുന്നു ഇതിന് 5 0 2 0 എന്ന് പറയട്ടെ അതിനാൽ ഈ ഫംഗ്ഷൻ ക്വാഡ് സോൾവറിനുള്ള ഇൻപുട്ട് ആണ് അതിനാൽ ഫംഗ്ഷന്റെ പേര് ക്വാഡ് സോൾവർ ആണ് മൂന്ന് പാരാമീറ്ററുകൾ എടുത്ത് പരിഹാരം പ്രദർശിപ്പിക്കുന്നു അപ്പോൾ ഇതിനുള്ള തുല്യതാ ക്ലാസുകൾ എന്തായിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ സാഹചര്യങ്ങൾ പരിഗണിക്കണമെന്നും സാഹചര്യങ്ങൾ എന്തായിരിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞു സാഹചര്യങ്ങൾ റൂട്ട് ഒരു യാദൃശ്ചിക റൂട്ട് ആണ് ഔട്ട്പുട്ട് വേരുകൾ യാദൃശ്ചികമാകാം അവ ഒരേ root കളാണ് അവയ്ക്ക് വ്യത്യസ്തമായ വേരുകൾ വ്യത്യസ്തവും യഥാർത്ഥ വേരുകളുമുണ്ടാകാം നമുക്ക് സാങ്കൽപ്പിക വേരുകൾ ഉണ്ടായിരിക്കാം അതിനാൽ b2 4ac യുടെ മൂല്യങ്ങൾ എന്താണെന്നതിനെ ആശ്രയിച്ച് സംഭവിച്ചേക്കാവുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് വ്യത്യസ്ത പരിഹാരങ്ങൾ ഉണ്ടായേക്കാം സാധുവായതും അസാധുവായതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞത് സാധുവായതും അസാധുവായതുമായ ക്ലാസുകൾ പരിഗണിക്കണം എന്നാണ് അതിനാൽ സാധുവായ അസാധുവായ ഇൻപുട്ടിന്റെ കാര്യമോ അതിനാൽ അസാധുവായ ഇൻപുട്ടിന്റെ കാര്യമെന്താണ് അസാധുവായ ഇൻപുട്ട് എ ബി സി എന്നിവ 0 ആയതിനാൽ അത് അസാധുവായ തുല്യതാ ക്ലാസാണ് അല്ലെങ്കിൽ a b c എന്നിവ പ്രതീക സ്ട്രിംഗുകളായി നൽകിയിരിക്കാം അതിനാൽ ആ അസാധുവായ തുല്യതാ ക്ലാസുകളുടെ പ്രതിനിധിയെയും ഞങ്ങൾ പരീക്ഷിക്കേണ്ടതുണ്ട് സാധുവായ തുല്യതാ ക്ലാസുകളിൽ നിന്ന് നമുക്ക് ആവശ്യമാണ് ഞങ്ങൾക്ക് യാദൃശ്ചിക വേരുകളുണ്ട് ഞങ്ങൾക്ക് വ്യത്യസ്തവും യഥാർത്ഥവുമായ വേരുകളുണ്ട് ഒപ്പം സാങ്കൽപ്പിക വേരുകളും അതിനാൽ നമുക്ക് സാധുവായ സമവാക്യങ്ങൾ അസാധുവായ സമവാക്യങ്ങൾ ഉണ്ടെന്ന് പ്രതിനിധീകരിക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത തുല്യതാ ക്ലാസുകൾ ഉണ്ട് ഒന്ന് a b c 0 അസാധുവായ സമവാക്യം അല്ലെങ്കിൽ അസാധുവായ ഇൻപുട്ട് മൂല്യങ്ങൾ a b c പ്രതീകങ്ങളാണ് സാധുവായ സമവാക്യങ്ങൾക്ക് നമുക്ക് യഥാർത്ഥവും സങ്കീർണ്ണവും യഥാർത്ഥവുമായ യാദൃശ്ചികവും അതുല്യവുമായ ഉണ്ടായിരിക്കാം അതിനാൽ സങ്കീർണ്ണവും യാദൃശ്ചികവും അതുല്യവുമായ 3 തുല്യതാ ക്ലാസുകൾ ഇവിടെയുണ്ട് അതിനാൽ b2 4ac b2 4ac കണക്കിലെടുക്കുമ്പോൾ ഇൻപുട്ട് ലുക്കിന്റെ പ്രതിനിധി മൂല്യങ്ങൾ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യണം ഇതുവരെ ഞങ്ങൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കുകൾ തുല്യതാ പരിശോധന പ്രത്യേക മൂല്യ പരിശോധന എന്നിവ നോക്കി ഒരു കാര്യം ലളിതമായ പ്രശ്നങ്ങൾക്ക് ആശയങ്ങൾ നേരായ രീതിയിൽ പ്രയോഗിക്കാൻ കഴിയും എന്നാൽ ഇവിടെ നമുക്ക് ധാരാളം പരിശീലനം ആവശ്യമാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രശ്നങ്ങൾക്കായി തുല്യതാ ക്ലാസ് ടെസ്റ്റുകളും പ്രത്യേക മൂല്യ പരിശോധനകളും രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ ദയവായി ചെയ്യുക ഞങ്ങൾ ഇവിടെ നിർത്തും ഞങ്ങൾ കോമ്പിനേറ്റർ പരിശോധന തുടരും